അതിനാൽ കമ്പ്യൂട്ടേഷണൽ പരിഗണനകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്തിമ ചർച്ച അതിനാൽ നിങ്ങളിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യമാണിത് അതിനാൽ നിങ്ങൾ ഉപരിതല അവിഭാജ്യ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ സൂക്ഷ്മമായി വിവേചനം ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇത് ഉപരിതലമായിരുന്നോ അല്ലെങ്കിൽ വോളിയം എടുത്താലും ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രിഡ് ഉള്ളിടത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഗ്രിഡ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഡിഎൽ എങ്ങനെ കണ്ടെത്തണമെന്ന് നിങ്ങൾക്കറിയാം ഈ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കും അതിനാൽ ഈ രണ്ട് രീതികളും നിങ്ങൾ പഠിച്ചതായി നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ പറയട്ടെ നിങ്ങൾ അവ കോഡ് അപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ലഭിച്ചു നിങ്ങൾ ഒരു dl തിരഞ്ഞെടുത്തത് മതിയായതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ഒരു പ്രധാന ചോദ്യമാണെന്ന് തോന്നുന്നു കാരണം നിങ്ങൾ തെറ്റായ dl തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് രണ്ട് പരുക്കൻ ആയിരിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീൽഡുകളെ ശരിയായി പ്രതിനിധീകരിക്കുന്നില്ല അതിന്റെ രണ്ട് ഗതി അതിനാൽ ഞങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കില്ല നേരെമറിച്ച് ഞാൻ dl വളരെ മികച്ചതാക്കുകയാണെങ്കിൽ എനിക്ക് ശരിയായ ഉത്തരം ലഭിക്കും പക്ഷേ കമ്പ്യൂട്ടറിൽ എനിക്ക് 10 മടങ്ങ് കൂടുതൽ സമയം എടുത്തേക്കാം അപ്പോൾ ഞാൻ അതിൽ ചെലവഴിക്കേണ്ടതായിരുന്നു അപ്പോൾ dl നുള്ള ശരിയായ ഉത്തരത്തിൽ നമ്മൾ എത്തിയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം വീണ്ടും ചിന്തിക്കുക ഇത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്നത് സാമാന്യബുദ്ധിയുള്ള ചോദ്യമാണ് വിദ്യാർത്ഥി നിങ്ങൾക്ക് സമാനമായ മൂല്യം ലഭിക്കുന്നതുവരെ നിങ്ങൾ കോഡ് പ്രവർത്തിപ്പിക്കുന്നത് തുടരുക അതിനാൽ നിങ്ങൾക്ക് സമാനമായ മൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ കോഡ് പ്രവർത്തിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥി എന്നതിന് മുകളിലുള്ളതിന് തുല്യമായ 400 ന് തുല്യമായ 500 ന് തുല്യമായ ഒന്ന് അതിനാൽ സംഖ്യാപരമായ ഒത്തുചേരൽ എന്ന ആശയമാണ് അതിന്റെ ഔപചാരിക വാക്ക് അതിനാൽ സംഖ്യാ സംയോജനം ഈ അച്ചുതണ്ടിൽ എനിക്ക് dl ന്റെ മൂല്യങ്ങളുണ്ടെന്ന് പറയാം ഞാൻ എന്തുചെയ്യണം ഞാൻ ഫീൽഡ് കണക്കാക്കുന്ന സ്ഥലത്തിന്റെ ഒരു സ്ഥാനം ഇവിടെ എടുക്കട്ടെ അതിനാൽ ഇത് ശരിയാക്കി മാറ്റുന്നത് തുടരുക അതിനാൽ ലഭിച്ച പോയിന്റിൽ ഞാൻ E പ്ലോട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം അത് ശരിയായി പ്ലോട്ട് ചെയ്യുക അതിനാൽ നമുക്ക് വലിയ മൂല്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് മികച്ച മൂല്യങ്ങളിലേക്ക് പോകാം അതിനാൽ dl ഒരു വലിയ സംഖ്യയിൽ നിന്ന് ആരംഭിക്കുകയും കുറയുകയും ചെയ്യുന്നു അതിനാൽ ഇത് വിപരീതമായി നിങ്ങൾക്ക് ഇത് 1 dl അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു വലിയ കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം എന്ന് ചിന്തിക്കാം അതിനാൽ ഇതുപോലുള്ള ചില ചാഞ്ചാട്ട സ്വഭാവങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിരീക്ഷിച്ചേക്കാം ആത്യന്തികമായി എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് ഇവിടെത്തന്നെ സ്ഥിരതയുള്ള ഉത്തരം ലഭിക്കും അതിനാൽ ഈ ചാഞ്ചാട്ടം പൂർണ്ണമായും സംഖ്യാപരമായതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥ ഭൌതികശാസ്ത്ര പ്രശ്നം പരിഹരിക്കാത്തത് കാരണം മതിയായ റെസല്യൂഷനുള്ള ഫീൽഡുകളെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ചില സമവാക്യങ്ങൾ പരിഹരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ലഭിക്കുന്നു അതിന് യഥാർത്ഥ ഭൌതിക അർത്ഥമില്ല അതിനാൽ ചിലപ്പോൾ ഫീൽഡുകൾ വർദ്ധിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം ചിലപ്പോൾ കുറയുന്നു പരിഹാരത്തെ പ്രതിനിധീകരിക്കുന്നതിന് ആവശ്യമായ വിശ്വസ്തതയെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ ഫീൽഡുകൾ ഇതുപോലെ സ്ഥിരത കൈവരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എവിടെ സ്ഥിരത കൈവരിച്ചിരിക്കുന്നുവോ ആ പോയിന്റ് നിങ്ങൾ അന്വേഷിക്കുകയും ഇതാണ് ശരിയായ മൂല്യം എന്ന് പറയുകയും വേണം അതിനാൽ നിങ്ങൾ കമ്പ്യൂട്ടേഷണൽ എമിൽ എഴുതുന്ന ഏത് കോഡും നിങ്ങൾ ഒരു ന്യൂമറിക്കൽ കൺവേർജൻസ് ടെസ്റ്റ് നടത്തണം സാധാരണയായി ഒരു പോയിന്റിന് വേണ്ടിയല്ല കുറച്ച് പോയിന്റുകൾക്കായി എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റായി ഒരു ഫീൽഡ് നോഡായ ഒരു പോയിന്റ് തിരഞ്ഞെടുത്തത് ഫീൽഡ് മൂല്യം 0 ലേക്ക് പോകുന്നിടത്ത് എന്റെ കോഡ് എങ്ങനെയാണ് നൽകുന്നത് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് അത് സാധുതയുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങളുടെ കോഡിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതിനാൽ കുറച്ച് പോയിന്റുകൾ തിരഞ്ഞെടുക്കുക അത് ഒത്തുചേരണം തുടർന്ന് അതാണ് നിങ്ങളുടെ ഡിഎൽ ഓകെ മൂല്യം ഇപ്പോൾ ആളുകൾ ഈ പരിശോധനകൾ വളരെ ശരിയായി ചെയ്തു അതിനാൽ നിങ്ങളുടെ dl എല്ലാം ശരിയുടെ പരിധിയിലായിരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന ഒരു നിയമവും ഇവിടെയുണ്ട് അതിനാൽ ഈ കേസിൽ ഇത് dl ആണ് ഈ ശ്രേണിയിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഒരു നിയമമാണ് അത് തെറ്റോ ശരിയോ ആകാം അത് ഒബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ പൊതുവെ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന നല്ല പെരുമാറ്റമുള്ള ഒബ്ജക്റ്റ് കൂടാതെ വിദ്യാർത്ഥി എന്തായിരിക്കും സംഭവ ഫീൽഡിന്റെ തരംഗദൈർഘ്യം ശരിയാണ് അതിനാൽ സംഭവ ഫീൽഡ് തരംഗദൈർഘ്യം നിങ്ങൾക്ക് ന്യായമായ ഉത്തരം നൽകാൻ ഇത് മതിയാകും പ്രശ്നത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് പോകാം അതിനാൽ ഇത് നല്ലതാണ് ഇത് പരുക്കനാണ് എന്നാൽ ഇത് ഒരു നിയമമായി ഉപയോഗിക്കുക എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് തെറ്റായിരിക്കാം നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ശരി പരിശോധിക്കണം dl ൽ നിന്ന് രണ്ടോ അതിലധികമോ പരിഹാസ്യമായ വലിയ സംഖ്യയോ ആരംഭിക്കരുതെന്ന് നിങ്ങളോട് പറയാൻ മാത്രമാണിത് അത് തീർച്ചയായും പ്രവർത്തിക്കാൻ പോകുന്നില്ല ഉറപ്പായും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഓവർകില്ലല്ല വിദ്യാർത്ഥി മാധ്യമത്തിനുള്ളിൽ മാധ്യമത്തിനുള്ളിൽ അതെ അത് ഒരു നല്ല പോയിന്റാണ് അതിനാൽ ഇടത്തരം വലതുവശത്തുള്ള ലാംഡയുടെ മൂല്യങ്ങളുണ്ട് അപ്പോൾ മാധ്യമത്തിനുള്ളിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ലാംഡ ലാംഡയ്ക്ക് തുല്യമാണ് വസ്തു സാധാരണയായി അതിനാൽ n എന്നത് ഒബ്ജക്റ്റിന്റെ റിഫ്രാക്റ്റീവ് സൂചിക ശരിയാണ് അതിനാൽ എന്താണ് ഇതിന്റെ നിഗമനം എന്താണ് എനിക്ക് വളരെ വലിയ വൈദ്യുത സ്ഥിരാങ്കം വളരെ ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഉള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ വളരെ ആഴം കുറഞ്ഞ റിഫ്രാക്റ്റീവ് സൂചിക ശരിയാണെന്ന് പറയുന്നതിന് അപേക്ഷിച്ച് എനിക്ക് അത് നന്നായി ഗ്രിഡ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നു അതിനാൽ ഒരേ വസ്തുവിന് മികച്ച വിവേചനാധികാരം ആവശ്യമായി വന്നേക്കാം അതിന് ഉയർന്ന റിഫ്രാക്റ്റീവ് സൂചിക ഉണ്ടെങ്കിൽ ശരി അതിനാൽ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണ് ഇവിടെ സംഗ്രഹിക്കുക ഞങ്ങൾ എന്താണ് നോക്കിയതെന്ന് നമുക്ക് നോക്കാം അതിനാൽ RCS ന്റെ ഉപരിതലവും വോളിയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കമ്പ്യൂട്ടേഷണൽ പരിഗണനകളെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു അതിനാൽ റഫറൻസിനായി സിഇഎമ്മിനെക്കുറിച്ചുള്ള പീറ്റേഴ്സന്റെ പുസ്തകത്തിന്റെ ഒന്നാം അദ്ധ്യായം അദ്ദേഹം നിങ്ങൾക്ക് ഈ റഡാർ ക്രോസ് സെക്ഷനും ആവശ്യമായ ഏകദേശ കണക്കുകളും നൽകുന്നു